സാധ്യമായ ഏറ്റവും ലളിതമായ ഉദാഹരണമായ 1 D ഉദാഹരണവുമായി നമുക്ക് മുന്നോട്ട് പോകാം അതിനാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ 1 D ഉദാഹരണത്തിനായി ഞാൻ ഒരു സ്ട്രിംഗ് എടുക്കാൻ പോകുന്നു ഈ സ്ട്രിംഗ് x0 xl എന്നീ രണ്ട് പോയിന്റുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ അതാണ് എന്റെ സ്ട്രിംഗ് അത് പരിമിതപ്പെടുത്തിയിരിക്കുന്നു അത് രണ്ടറ്റത്ത് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനിടയിൽ എങ്ങനെയും ഓസിലേറ്റ് ചെയ്യാം അതിനാൽ 12 ാം ക്ലാസിൽ നിന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള സമവാക്യങ്ങൾ സ്ട്രിംഗിലെ ടെൻഷൻ എന്നിവ പരിഹരിക്കുകയും അവയുടെ സ്ഥാനചലനം കണക്കാക്കുകയും ചെയ്തു ഒരുപാട് പരിമിതികളുണ്ട് അവയെല്ലാം ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളും അത് u എന്നതിന്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് ആണ് അപ്പോൾ എന്താണ് u ഏത് x എന്ന സ്ഥാനത്തും സ്ട്രിംഗിന്റെ സ്ഥാനചലനമാണിത് അതിനാൽ F എന്നത് പ്രയോഗിച്ച ഫോഴ്സ് ആണ് അതിനാൽ ഈ സമവാക്യം എങ്ങനെ ലഭിച്ചുവെന്ന് നാം വിഷമിക്കേണ്ടതില്ല മെക്കാനിക്സ് ഈ സമവാക്യം നമുക്ക് നൽകിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യമാണ് ഞാൻ ഇവ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകം കാണാൻ കഴിയും ഞാൻ എന്നെക്കാൾ മുന്നേറരുത് നമുക്ക് പടിപടിയായി തുടരാം കുറഞ്ഞത് സജ്ജീകരണം വ്യക്തമാണോ രണ്ടറ്റത്ത് കെട്ടിയ ചരട് അപ്പോൾ അതാണ് എന്റെ ഡിഫറൻഷ്യൽ സമവാക്യം ഈ സാഹചര്യത്തിൽ ഉദാഹരണത്തിന് എന്റെ L ഓപ്പറേറ്റർ എന്തായിരിക്കും ddx22 അതെല്ലാം ശരിയാണ് സത്യത്തിൽ ഞാൻ ഭാഗികമായ ഡെറിവേറ്റുകൾ എഴുതേണ്ട ആവശ്യമില്ല അത് 1 D പ്രശ്നമാണ് എനിക്ക് ഇത് മൊത്തം ഡെറിവേറ്റീവുകളായി എഴുതാം മുമ്പത്തെ സ്ലൈഡിൽ നിന്ന് എന്റെ ϕ u ഉം f ഉം ആണ് അത് വലിയ അക്ഷരമായ F ആണ് അതിനാൽ ഞാൻ വൺ ടു വൺ സിസ്റ്റം എടുത്തിട്ടുണ്ട് ഈ ഭൌതിക പ്രശ്നത്തിന്റെ അതിർത്തി വ്യവസ്ഥകൾ എന്താണെന്ന് നിങ്ങൾ കരുതുന്നു x0 x എന്നിവ ഒന്നുകൂടി 0 ന് തുല്യമാണ് അതെ ഇത് രണ്ട് അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്നു അതിനാൽ അതിർത്തി വ്യവസ്ഥകൾ രണ്ടറ്റത്തും സ്ഥാനചലനം u 0 u 0 എന്താണ് ഇത് എന്താണ് അവിടെ വിവരിച്ചിരിക്കുന്നത് അതിനാൽ ഇവ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന പോലെയാണ് ഈ രണ്ട് പോയിന്റുകളിലും ഈ അറ്റത്തിന് ഇടയിൽ ഒരു ചരട് കെട്ടിയിരിക്കുന്നു ഫോഴ്സ് പ്രയോഗിക്കുന്നു ഫോഴ്സ് ഇതുപോലെ പ്രയോഗിക്കുന്നു ചില ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഏകപക്ഷീയമായ പോയിന്റിൽ ഞാൻ കുറച്ച് ഫോഴ്സ് പ്രയോഗിക്കുന്നു ആ ഫോഴ്സ് ഒരു ബിന്ദുവിൽ ആയിരിക്കണമെന്നില്ല അത് ഉടനീളം പ്രയോഗിക്കാൻ കഴിയും അത് f വഴി നൽകുന്നു f എന്നത് x ന്റെ ഒരു ഫംഗ്ഷനാണ് അത് സ്ട്രിംഗിലുടനീളം പൂജ്യമല്ല നിങ്ങൾക്ക് അതിൽ ഒരു ഒബ്ജക്റ്റ് സ്ഥാപിക്കാമായിരുന്നു അതിനാൽ f വിതരണം ചെയ്യപ്പെടുന്നു അതിനാൽ f ന്റെ രൂപം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല മുമ്പത്തെ സ്ലൈഡിൽ പ്രചോദിപ്പിച്ചത് പോലെ നമ്മുടെ പ്രധാന ലക്ഷ്യം g കണ്ടെത്തുക എന്നതാണ് എനിക്ക് നിങ്ങളോട് എല്ലാം പറയാം ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാനാകുന്ന ഗ്രീൻസ് ഫംഗ്ഷന്റെ Green's function നിർവചനം എന്താണ് അവസാന സ്ലൈഡിൽ നിന്നുള്ളതുപോലെ ഗ്രീൻസ് ഫംഗ്ഷൻ Green's function വളരെ ലളിതമായി നിർവചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു d2Gxx′ dx2 δxx′ ചില സ്ഥലങ്ങളിൽ ഇത് δx x′ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അപ്പോൾ ഈ ഭൌതിക പ്രശ്നത്തിന്റെ ജ്യാമിതി എന്താണ് നമ്മൾ പ്രയോഗിക്കുന്നു അതിനാൽ ഇത് എന്റെ x ആക്സിസ് ആണ് ഇവിടെ ചില ഘട്ടങ്ങളിൽ x ഞാൻ ഒരൊറ്റ ബിന്ദുവിൽ ബലം പ്രയോഗിച്ചു വലതുഭാഗം ഒരു ബിന്ദുവിൽ മാത്രം പൂജ്യമല്ലെന്ന് ഓർക്കുക ഇത് ഒരു ഡെൽറ്റ ഫംഗ്ഷനാണ് അതിനാൽ xx ൽ ഞാൻ കുറച്ച് ശക്തി പ്രയോഗിച്ചു അതിനാൽ ഈ ശക്തിയുടെ പ്രയോഗം കാരണം ചരട് ഇപ്പോൾ വളഞ്ഞതുപോലെയാണ് ഈ സാഹചര്യത്തിൽ ഭൌതിക വ്യാഖ്യാനം കർശനമായി ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് കാരണം അപ്രത്യക്ഷമാകുന്ന ഒരു ചെറിയ പോയിന്റിൽ ഞാൻ വളരെ വലിയ ശക്തി പ്രയോഗിക്കുന്നു അതിനാൽ ഇതുപോലെ ഒരു ഡയഗ്രം വരയ്ക്കുന്നത് അൽപ്പം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കാരണം അനന്തമായി കാണിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് ഡെൽറ്റ ഫംഗ്ഷന്റെ മൂല്യം ആ ഘട്ടത്തിൽ അനന്തമാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്നത് ഈ സംവിധാനത്തിൽ ഒരു ബലപ്രയോഗം നടത്തുന്നുവെന്നത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു പ്രാതിനിധ്യം മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന സംവിധാനത്തിന്റെ പ്രതികരണം കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ പ്രതികരണവും അതേ അതിർത്തി വ്യവസ്ഥകൾ പിന്തുടരും അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അനുമാനമാണ് അത് പ്രശ്നം പരിഹരിക്കാൻ നമ്മളെ സഹായിക്കുന്നു അതിനുശേഷം നിങ്ങൾക്ക് ഒരു സ്ഥിരതയുള്ള സമവാക്യങ്ങൾ ലഭിക്കും അതിനാൽ ഇതേ അതിർത്തി വ്യവസ്ഥയിൽ നമുക്ക് ഇത് പറയാൻ കഴിയും എനിക്ക് എന്ത് പറയാൻ കഴിയും G0x′ 0 Glx0 കാരണം സ്ട്രിംഗ് അവിടെ മുറുകെ പിടിച്ചിരിക്കുന്നു നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ x⧧x′ എന്ന് പറയാൻ പോകുന്നു അതിനാൽ ഈ ഡെൽറ്റ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് വ്യക്തതയുണ്ട് എല്ലാ ശരിയായ സജ്ജീകരണവും വ്യക്തമാണ് അടുത്ത ഘട്ടം അത് പരിഹരിക്കുകയാണ് അതിനാൽ നമ്മൾ അത് സ്പേഷ്യൽ ഡൊമെയ്നിൽ തന്നെ നേരിട്ട് പരിഹരിക്കും ആദ്യ ഘട്ടം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ നിങ്ങൾ ഇവിടെ ഈ സമവാക്യം നോക്കുമ്പോൾ ഡെൽറ്റ ഫംഗ്ഷന്റെ ബുദ്ധിമുട്ടുള്ള ഭാഗം എന്താണ് അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പോകുന്നു അതിനാൽ എനിക്ക് എന്തെങ്കിലും പരിഹരിക്കണമെങ്കിൽ എനിക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്നത് ഡെൽറ്റ ഫംഗ്ഷൻ നിലവിലില്ലാത്തതും എപ്പോൾ സംഭവിക്കുന്നതുമായ അവസ്ഥ പരിഗണിക്കുക എന്നതാണ് x⧧x′ അല്ലേ അതിനാൽ നമ്മൾ ചെയ്യുന്നത് x⧧x′ ആകുമ്പോൾ ഇത് പരിഹരിക്കാം അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഈ സമവാക്യം ലളിതമായി മാറുന്നു അതിനാൽ ഇത് മൂലധനം G ശരിയായിരിക്കണം അതിനാൽ ഒരു ഫംഗ്ഷന്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് 0 ആണ് പ്രൈംഡ് അല്ലെങ്കിൽ അൺപ്രൈംഡ് ഏത് കോർഡിനേറ്റുകളെ സംബന്ധിച്ചാണ് ഞാൻ ഡെറിവേറ്റീവ് എടുക്കുന്നത് അൺപ്രൈംഡ് അൺപ്രൈംഡ് ഇതിന് ലളിതമായ ഒരു വിശകലന പരിഹാരമുണ്ടോ അതെ എന്താണ് ഇത് രേഖീയമാണ് ലീനിയർ ഫംഗ്ഷൻ അതിനാൽ ഇത് Gxx′ Ax B ആണെന്ന് എനിക്ക് പറയാം അതിനാൽ ഈ സാഹചര്യം x⧧x′ സാധ്യമായ രണ്ട് വഴികളിൽ സംഭവിക്കാം ഒന്ന് x x′ മറ്റൊന്ന് x x′ അതിനാൽ ഞാൻ ഇത് വരയ്ക്കാം വീണ്ടും ഇവിടെ ഇത് എന്റെ x ആണ് ഇതാണ് എന്റെ നീളം l ഇത് 0 ആണ് ഇവിടെ ചിലത് x ആണ് അതാണ് ഭൌതിക സാഹചര്യം അതിനാൽ ഞാൻ x x′ പരിഗണിക്കുമ്പോൾ എനിക്ക് എന്ത് പരിഹാരമാണ് എഴുതാൻ കഴിയുക അതിനാൽ Gxx′ രണ്ട് കേസുകൾ ഉണ്ടാകും ആദ്യത്തെ കേസ് രണ്ട് സാഹചര്യങ്ങളിലും പരിഹാരം Ax B ആണ് എന്നാൽ ഈ A യും B യും ഇടത്തും വലത്തും ഒരുപോലെയായിരിക്കുമോ ആയിരിക്കണമെന്നില്ല അതിനാൽ ഞാൻ ഇത് ഇങ്ങനെ എഴുതാം Gxx′ A1x B1 x x′ ഒപ്പം Gxx′ A2x B2 x x′ ഞാൻ ഇപ്പോൾ x x′ എന്നതിൽ നിന്ന് ഒഴിഞ്ഞുനിൽക്കുന്നു അതിനാൽ ആർക്കും ഇതുമായി തർക്കിക്കാൻ കഴിയില്ല ഈ രണ്ട് സാഹചര്യങ്ങളിലും എനിക്ക് ഒരു ഏകീകൃത ഡിഫറൻഷ്യൽ സമവാക്യം ഉണ്ട് അത് G′′ 0 ആണ് പരിഹാരം ഇരുവശത്തും രേഖീയമാണ് അതിനാൽ ഈ പ്രശ്നം എത്ര വേരിയബിളുകൾ അവതരിപ്പിക്കുന്നു എത്ര അജ്ഞാതങ്ങളുണ്ട് 4 4 അജ്ഞാതങ്ങൾ ശരിയാണ് അതിനാൽ നമുക്ക് അതിർത്തി വ്യവസ്ഥകൾ ഉപയോഗിക്കാം കാരണം ഇത് പരിഹരിക്കാൻ നമ്മളെ സഹായിക്കും ഇവിടെ ഇടത് വശം x x' എന്നിവയുടെ ഫംഗ്ഷനാണെന്ന് നിങ്ങൾക്ക് ഇതിനകം ഒരു കാര്യം പറയാൻ കഴിയും വലതുഭാഗം x ന്റെ ഒരു ഫംഗ്ഷൻ മാത്രമാണെന്ന് തോന്നുന്നു അതിനാൽ ഈ സ്ഥിരാങ്കങ്ങൾ A B എന്നിവ x ന്റെ ഫംഗ്ഷനുകളായിരിക്കും നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയും അത് അതിർത്തി അവസ്ഥയിൽ നിന്നാണ് വരുന്നത് അതിനാൽ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ആദ്യ അതിർത്തി വ്യവസ്ഥ x0 ആണ് അതിനാൽ ഞാൻ സമവാക്യം 1 തിരഞ്ഞെടുക്കും x0 ആദ്യ കേസിൽ വരുന്നു അതിനാൽ ഇത് 1 ാമത്തെ കേസ് ഇത് 2 ാമത്തെ കേസ് അപ്പോൾ അത് എന്നോട് എന്താണ് പറയുന്നത് അത് എങ്ങനെ അർത്ഥമാക്കുന്നു A1 × 0 B1 0 B1 എന്നത് 0 ആണ് A1 നെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനാവില്ല സംഭവിക്കുന്ന അടുത്ത അവസ്ഥ x l ആണ് അതിനാൽ ഇവിടെ ഞാൻ A2l B2 0 എന്ന് പറയും അതിനാൽ എനിക്ക് B2 − A2l എന്ന് പറയാം മറ്റൊരു കാര്യം ചരട് പൊട്ടുന്നില്ലെന്ന് നമ്മൾ ഭൌതികമായി പ്രതീക്ഷിക്കുന്നു അതിനാൽ അത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂയിറ്റി ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂയിറ്റി ഞാൻ സമ്മർദ്ദം പ്രയോഗിച്ച ഘട്ടത്തിൽ സംഭവിക്കും മറ്റ് സ്ഥലങ്ങളിൽ ഇത് നിസ്സാരമായി തുടർച്ചയായതാണ് അതിനാൽ ഇത് xx' ൽ സംഭവിക്കുന്നു അതിനാൽ അതാണ് സൂചന ഈ രണ്ട് സമവാക്യങ്ങളും എന്നോട് എന്താണ് പറയുന്നത് B1 എന്തായാലും 0 ആണ് അപ്പോൾ xൽ ഇടത് വശം എന്താണ് A1 A1x′ അതെ പക്ഷേ നമ്മൾ തുടർച്ച നേടാൻ ശ്രമിക്കുകയാണ് ഇവ ഇവിടെ നിന്ന് ഉരുത്തിരിഞ്ഞുവരാൻ നമ്മൾ x⧧x′ ഉപയോഗിക്കുന്നു പക്ഷേ എനിക്ക് എന്ത് പരിഹാരം കിട്ടിയാലും അതിനാൽ നമുക്ക് x ന്റെ ഇടതുവശത്തും x ന്റെ വലതുവശത്തും സ്ട്രിംഗുകൾ വരുന്നു പെട്ടെന്ന് ഉയരാൻ കഴിയില്ല അത് തകർക്കാൻ കഴിയാത്ത ഒരു സ്ട്രിംഗാണ് അതിനാൽ ഈ ഇടത് പരിധിയും വലത് പരിധിയും ഞാൻ പരസ്പരം സജ്ജീകരിക്കാൻ പോകുന്നു അങ്ങനെ എനിക്ക് ഒരു തുടർച്ചയായ ഫംഗ്ഷൻ ലഭിക്കുന്നു നമുക്ക് തുടർച്ചയുടെ അടിസ്ഥാന നിർവചനം ഉണ്ട് അതിനാൽ അതൊരു ഇടത് വശമാണ് ഇത് കേസ് 1 ൽ നിന്നുള്ളതാണ് അത് വലത് പരിധിക്ക് തുല്യമായിരിക്കണം അതിനാൽ വലത് പരിധി എനിക്ക് എന്താണ് നൽകാൻ പോകുന്നത് A2x′ B2 A2 ഉം B2 ഉം എനിക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ പകരം വയ്ക്കാം അതിനാൽ ഇത് എനിക്ക് x′ − l തരും അതിനാൽ A2 A1x′ − l എന്ന് എന്നോട് പറയുന്നു അതിനാൽ ഞാൻ 4 വേരിയബിളുകളിൽ നിന്നാണ് ആരംഭിച്ചത് ഈ 4 വേരിയബിളുകൾക്കിടയിൽ എനിക്ക് ഇതുവരെ എത്ര ബന്ധങ്ങളുണ്ട് അതിനാൽ എനിക്ക് a b c എന്നിവയുണ്ട് അതിനാൽ ഇതുവരെ മൂന്ന് വ്യവസ്ഥകൾ അത് ശരിക്കും പര്യാപ്തമല്ല മുഴുവൻ പ്രശ്നത്തെക്കുറിച്ചും പൂർണ്ണമായ വിവരങ്ങൾ നൽകുന്നതിന് എനിക്ക് ഒരു ബന്ധം കൂടി ആവശ്യമാണ് ആ നാലാമത്തെ വ്യവസ്ഥ എന്തായിരിക്കും നമ്മൾ തുടർച്ചയായി അടിച്ചേൽപ്പിക്കുന്നു അത് ഡിഫറൻഷ്യൽ സമവാക്യം നേരിട്ട് കൈകാര്യം ചെയ്തോ ഇല്ല ഞാൻ പരിഹാരത്തിന്റെ രൂപം എടുത്ത് അതിനെ തുല്യമാക്കി അപ്പോൾ നമ്മൾ ഇതുവരെ കൈകാര്യം ചെയ്യാത്ത ബുദ്ധിമുട്ടുള്ള ഭാഗം എന്താണ് xx' എന്നതിലെ ഡിഫറൻഷ്യൽ സമവാക്യം അതിനാൽ ഇപ്പോൾ നമുക്ക് മറ്റ് വഴികളൊന്നുമില്ല നമ്മൾ ഇതിനെ അഭിമുഖീകരിക്കണം അതിനാൽ അതാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത് എന്താണ് അവസാന തന്ത്രം അതിനാൽ എനിക്ക് G′′x − x′ δx − x′ ഉണ്ട് ഞാൻ രണ്ടാമത്തെ ഡെറിവേറ്റീവ് സംയോജിപ്പിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും രണ്ടാമത്തെ ഡെറിവേറ്റീവ് സംയോജിപ്പിക്കുന്നത് എനിക്ക് ആദ്യ ഡെറിവേറ്റീവ് നൽകും സ്പഷ്ടമായി അതിനാൽ ഞാൻ ഇത് അവബോധപൂർവ്വം സംയോജിപ്പിച്ചാൽ ഇത് ഇരുവശത്തും സംയോജിപ്പിച്ചാൽ ഞാൻ എന്ത് കാണും ഇടത് വശം എനിക്ക് ആദ്യ ഡെറിവേറ്റീവ് നൽകും വലതുഭാഗം എനിക്ക് തരും 1 1 അത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് അതിനാൽ നമുക്ക് സംയോജിപ്പിക്കാം എന്നാൽ സംയോജനത്തിന്റെ മേഖല എന്തായിരിക്കണം അതിനാൽ ഇത് എന്റെ x ആണ് ഞാൻ ഏതെങ്കിലും പ്രദേശത്ത് സംയോജിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സംയോജിപ്പിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാൽ ഒരുവശത്ത് എല്ലാം മാറ്റിയിട്ട് മറുവശത്ത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സംയോജിപ്പിച്ചാൽ രസകരമായ എന്തെങ്കിലും സംഭവിക്കും x′ε അതിനാൽ നമുക്ക് ഇപ്പോൾ സംയോജിപ്പിക്കാം ഞാൻ ∫ G′′xx′dx x′−ε സംയോജിപ്പിക്കാൻ പോകുന്നു വയർ നീളത്തിൽ ഞാൻ സംയോജിപ്പിക്കാൻ പോകുന്നു അതിനാൽ സംയോജനത്തിന്റെ വേരിയബിൾ x തന്നെയാണ് ഈ x′ε ∫ δx − x′dx ന്റെ അവിഭാജ്യമാകുക അപ്പോൾ ഇടത് വശം എനിക്ക് x′−ε എന്താണ് നൽകുന്നത് G' അത് എനിക്ക് G' തരും അവിടെ രണ്ടാമത്തെ ഡെറിവേറ്റീവിന്റെ ഇന്റഗ്രൽ എനിക്ക് ആദ്യത്തെ ഡെറിവേറ്റീവ് നൽകും അതിനാൽ ഇത് എനിക്ക് G′xx′|x′−εx′ε നൽകുകയും വലതുഭാഗം എനിക്ക് നിൽക്കും 1 1 കാരണം ഞാൻ ഏകീകരണത്തിൽ ഏകത്വം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടത് വശത്തെ വില എനിക്കറിയുമോ എനിക്കത് അറിയാം അതിനാൽ ഇടത് വശം എനിക്ക് നൽകാൻ പോകുന്നു G' രണ്ട് സാഹചര്യങ്ങളിലും എന്താണ് G A1 A2 അതിനാൽ ഇത് x x′ x x′ എന്നിവയ്ക്കാണ് അതിനാൽ ഇത് എനിക്ക് A2 − A1 1 നൽകും അതിനാൽ എനിക്ക് ആവശ്യമായ നാലാമത്തെ ബന്ധമാണിത് അതിനാൽ എനിക്ക് ഇത് ലളിതമാക്കാം എനിക്ക് ലഭിക്കുന്ന അവസാന പ്രയോഗം ഞാൻ നിങ്ങളോട് പറയും A1 x′ − ll A2 x′l അതിനാൽ എനിക്കുണ്ടായിരുന്ന ബന്ധം ഉപയോഗിച്ച് ഞാൻ ഇവിടെ ബീജഗണിതം ചെയ്തു എനിക്ക് ഈ ബന്ധവും ഇവിടെ ഉണ്ടായിരുന്നു റിലേഷൻ സി ഈ റിലേഷൻ ഡിയുമായി ഞാൻ അത് ചേർത്തു രണ്ട് സമവാക്യങ്ങളും രണ്ട് വേരിയബിളുകളും എനിക്ക് ഒരെണ്ണം ഒഴിവാക്കാനും നൽകിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് അത് നേടാനും കഴിയും അതിനാൽ എനിക്ക് ഇവിടെ ലഭിക്കുന്ന അവസാന പരിഹാരം എനിക്ക് അത് വീണ്ടും എഴുതാം എനിക്ക് x x′ x x′ എന്നിവയ്ക്ക് രണ്ട് കേസുകൾ ആവശ്യമാണ് അതിനാൽ ആദ്യ സന്ദർഭത്തിൽ ഇത് Gxx′ x′l−lx x x′ രണ്ടാമത് Gxx′ x−l lx′ x x′ അതിനാൽ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല ഞാൻ അതിർത്തി വ്യവസ്ഥകൾ ഉപയോഗിച്ചു ഞാൻ എവിടെയാണ് ഇംപൾസ് നൽകിയതെന്ന വിവരം ഞാൻ ഉപയോഗിച്ചു എനിക്ക് പ്രതികരണം ലഭിച്ചു അപ്പോൾ അന്തിമ പരിഹാരം ഞാൻ എന്ത് എഴുതും അന്തിമ പരിഹാരം u ആണ് സ്ഥാനചലനം ഞാൻ ചെയ്യാൻ പോകുന്നു അതിനാൽ ഗ്രീൻ ഫംഗ്ഷൻ എന്ന പുതിയ പേര് നൽകി ഗ്രീൻ ഫംഗ്ഷൻ എങ്ങനെ കണക്കാക്കാമെന്ന് ലളിതമായ ഒരു 1 ഡി ഉദാഹരണത്തിൽ ഞാൻ ഇംപൾസ് റെസ്പോൺസ്ൻറെ മുഴുവൻ മെഷിനറിയും പ്രയോഗിച്ചു ഇപ്പോൾ നിങ്ങളുടെ ഓപ്പറേറ്റർ ഇവിടെയുണ്ടെങ്കിൽ ഈ ഓപ്പറേറ്റർ എന്തെങ്കിലും വ്യത്യസ്തമായിരുന്നെങ്കിൽ എല്ലാ കണക്കുകൂട്ടലുകളും മാറും എന്നാൽ ആശയം അതേ ശരിയായി തുടരും അതിനാൽ ഇത് നിങ്ങളുടെ വളരെ ലളിതമായ 1 D ഉദാഹരണമാണ്